പൈത്തണിലെ ബിൽറ്റ് ഇൻ ലിസ്റ്റ് ടൈപ്പ് ഉപയോഗിച്ച് ഡാറ്റ സ്ട്രക്ചേഴ്സ് സ്റ്റാക്കുകൾ ക്യൂകൾ ഹീപ്പ് എന്നിവ എങ്ങനെ നടപ്പാക്കാമെന്ന് നമ്മൾ കണ്ടു പൈത്തണിലെ ബിൽട്ട് ഇൻ ടൈപ്പ് അല്ലാതെ നമ്മുടെ സ്വന്തം ഡാറ്റ ടൈപ്പുകൾ സൃഷ്ടിക്കാനും ഒരാൾക്ക് കഴിയുമെന്ന് മനസിലാക്കി നമ്മൾ ഇത് കൂടുതൽ വിശദമായി നോക്കുംഈ ആഴ്ചത്തെ പ്രഭാഷണങ്ങളിൽ ഒരു ഡാറ്റ സ്ട്രക്ച്ചർ എന്താണെന്നു നമുക്ക് വീണ്ടും നോക്കാം ഒരു ഡാറ്റാ സ്ട്രക്ച്ചർ അടിസ്ഥാനപരമായി ഒരു ഇന്റർഫേസിലൂടെ സ്വഭാവം നിർവചിക്കുന്ന വിവരങ്ങളുടെ ഒരു ഓർഗനൈസേഷനാണ് ഒരു ഇന്റർഫേസ് എന്നാൽ അനുവദനീയമായ പ്രവർത്തനങ്ങളുടെ സെറ്റ് ആണ് ഉദാഹരണത്തിന് ഒരു സ്റ്റാക്കിലെ അനുവദനീയമായ പ്രവർത്തനങ്ങൾ എന്നാൽ പുഷ് പോപ്പ് ആണ് തീർച്ചയായും ഒരു സ്റ്റാക്ക് ശൂന്യമാണോ എന്ന് ചോദിക്കാനും നമുക്ക് കഴിയും അതുപോലെ ഒരു ക്യൂവിനായി നമുക്ക് ഒരു ക്യൂ പരിഷ്ക്കരിക്കാനുള്ള ഒരേയൊരു മാർഗ്ഗം ക്യൂവിന്റെ പുറകിൽ എന്തെങ്കിലും ചേർക്കുക എന്നതാണ് അതിനു ആഡ് q എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ചേർക്കുക ക്യൂവിൽ നിന്ന് അതിന്റെ മുൻപിലെ ഘടകം നീക്കം ചെയ്യാൻ റിമൂവ് q എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഒരു മാക്സ് ഹീപ്പിനായി ഇൻസെർട്ട് ഫംഗ്ഷനുകളുണ്ട് അത് ചേർക്കാൻ ഉപയോഗിക്കുന്നു കൂടാതെ ഡിലീറ്റ് മാക്സ് ഹീപ്പിൽ നിന്ന് ഏറ്റവും വലിയ ഘടകത്തെ നീക്കംചെയ്യുന്നു ഇപ്പോൾ നമ്മൾ ഒരു ഹീപ്പ് ഒരു ലിസ്റ്റായി നടപ്പിലാക്കുന്നതിനാൽ ലിസ്റ്റുകൾക്കായി നിർവചിച്ചിരിക്കുന്ന ഫംഗ്ഷനുകൾ യഥാർത്ഥത്തിൽ ഹീപ്പിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് അർത്ഥമാക്കുന്നില്ല അതിനാൽ നമുക്ക് ഒരു ഹീപ്പ് എച്ച് ഉണ്ടെങ്കിൽ അത് പൈത്തൺ ലിസ്റ്റായി നടപ്പിലാക്കുന്നു ലിസ്റ്റ് ഒരു അപ്പെൻഡ് ഫങ്ഷൻ അനുവദിക്കും എന്നാൽ ഇവിടെ ആ അപ്പെൻഡ് ഫങ്ഷൻ സ്വന്തമായി ഒരു മൂല്യം ചേർക്കുകയും ഹീപ്പ് പ്രോപ്പർട്ടി പരിപാലിക്കുകയും ചെയ്യുന്നില്ല പൊതുവെ h ഡോട്ട് അപ്പെൻഡ് 7 പോലുള്ള കോൾ ഇവിടെ നിയമപരമായിരിക്കില്ല അനുവദനീയമായ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പുകൾ നിർവചിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇമ്പ്ലിമെന്റേഷൻ നോക്കാനും അത് ഒരു ലിസ്റ്റ് ആണോ അല്ലയോ എന്ന് ചോദിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല കാരണം അനുവദനീയമായത് എന്താണെന്നു ഇമ്പ്ലിമെന്റേഷൻ നിർണ്ണയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അബ്സ്ട്രാക്ട് ഇന്റർഫേസ് എന്ന് നമ്മൾ നിർവചിക്കുന്ന യഥാർത്ഥ പ്രവർത്തനങ്ങൾ മാത്രമേ അനുവദിക്കൂ ഉദാഹരണത്തിന് നമുക്ക് ഒരു സ്റ്റാക്ക് എസ് ഉണ്ട് എന്ന് കരുതുക നമ്മൾ മൂല്യം v പുഷ് ചെയ്യുന്നു നമ്മൾ ഉടനടി പോപ്പ് പ്രയോഗിച്ചാൽ അപ്പോൾ ഒരു സ്റ്റാക്കിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് തിരികെ ലഭിക്കുന്ന മൂല്യം നമ്മൾ അവസാനമായി പുഷ് ചെയ്ത മൂല്യം ആണെന്നു ഉറപ്പുനൽകുന്നു അതിനാൽ നമുക്ക് v തിരികെ ലഭിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ സീക്വൻസ് എക്സിക്യൂട്ട് ചെയ്യുക ആദ്യം നമ്മൾ s ഡോട്ട് പുഷ് ചെയ്യുക തുടർന്ന് നമ്മൾ പോപ്പ് ചെയ്യുന്നു തുടർന്ന് നമ്മൾ പുഷ് ചെയ്ത മൂല്യം നമുക്ക് തിരികെ ലഭിക്കണം സ്റ്റാക്കിന്റെ പ്രോപ്പർട്ടി അബ്സ്ട്രാക്ട് ആയി നിർവചിക്കുന്നതിനുള്ള ഒരു മാർഗമാണിത് ആന്തരിക മൂല്യങ്ങളെ എങ്ങനെ പ്രതിനിധീകരിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മളോട് ഒന്നും പറയാതെ തന്നെ പുഷ് പോപ്പ് എന്നിവ പരസ്പരം പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഒരു ശൂന്യമായ ക്യൂ ഉണ്ടെന്നു കരുതുക അതിൽ u v എന്നീ രണ്ട് ഘടകങ്ങൾ ചേർത്ത് ക്യൂവിന്റെ മുൻപിൽ നിന്ന് ഒരെണ്ണം നീക്കംചെയ്യുന്നു നമ്മൾ ഒരു ശൂന്യമായ ക്യൂവിൽ നിന്നാണ് ആരംഭിച്ചതെന്ന് ഓർക്കുക തുടർന്ന് ഈ അറ്റത്ത് നിന്ന് u ചേർക്കുന്നു എന്നിട്ട് നമ്മൾ v ഇടുന്നു തുടർന്ന് പുറത്തുവരുന്ന ഘടകം ആദ്യത്തെ u ആയിരിക്കണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് ശൂന്യമാണെന്ന് കരുതുക എന്നിട്ട് നമ്മൾ u ചേർക്കുന്നു ശേഷം v ചേർക്കുകയും മുൻപിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്താൽ നമുക്ക് u എന്ന ആദ്യ ഘടകം തിരികെ ലഭിക്കണം പ്രധാന കാര്യം ഇമ്പ്ലിമെന്റേഷൻ പരാമർശിക്കാതെ തന്നെ ഒരു ഡാറ്റ ടൈപ്പിന്റെ സ്വഭാവം നിർവചിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഇത് വളരെ ശ്രമകരമാണ് കാരണം ഇത് ഫംഗ്ഷനുകൾക്കിടയിലുള്ള എല്ലാ ഗുണങ്ങളും ഉൾകൊള്ളുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് എന്നാൽ ഇത് ചെയ്യാൻ കഴിയും സാങ്കേതികമായി ഒരു അബ്സ്ട്രാക്ട് ഡാറ്റാ ടൈപ്പ് നിർവചിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ വലിയ ഉദ്ദേശ്യങ്ങൾ ആണെങ്കിൽ നമ്മൾ അതിനെ കൂടുതൽ അനൌപചാരികമായി നിർവ്വചിക്കുകയും ഇമ്പ്ലിമെന്റേഷനെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്യും പക്ഷേ ഈ ഫങ്ഷൻസ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഇമ്പ്ലിമെന്റേഷൻ നിർണ്ണയിക്കരുത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഫംഗ്ഷനുകൾ ഒരേ രീതിയിൽ പെരുമാറുന്ന തരത്തിൽ ഒരു ഇമ്പ്ലിമെന്റേഷനെ മറ്റൊന്നിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയണം കൂടാതെ ഏത് ഇമ്പ്ലിമെന്റേഷൻ ആണ് ഉപയോഗിക്കുന്നതെന്ന് ബാഹ്യ ഉപയോക്താവിന് അറിയില്ല ഇപ്പോൾ ഇമ്പ്ലിമെന്റേഷൻ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടിവരുമ്പോൾ പലപ്പോഴും ഇത് സംഭവിക്കുന്നു നമ്മൾ കാര്യക്ഷമമല്ലാത്ത ഒരു ഇമ്പ്ലിമെന്റേഷൻ വരാം തുടർന്ന് അത് ഒപ്റ്റിമൈസ് ചെയ്യും ഉദാഹരണത്തിന് ഒരു പ്രയോറിറ്റി ക്യൂവിനായി നമുക്ക് ഇത് ഒരു സോർട്ടഡ് ലിസ്റ്റ് ആയി നടപ്പിലാക്കാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടു തുടർന്ന് ഇൻസേർട്ട് ഫങ്ഷൻ ഉപയോഗിച്ച് ഓർഡർ n ടൈമിൽ സോർട്ടഡ് ലിസ്റ്റിൽ ചേർക്കാൻ നമുക്ക് കഴിയും ഡീലീറ്റ് മാക്സ് ലിസ്റ്റിന്റെ മുൻപിൽ നിന്ന് നീക്കംചെയ്യും ഇത് ഒപ്റ്റിമൽ അല്ല കാരണം n ഇൻസേർട്ട് ഡിലീറ്റ് എന്നിവക്കായി ഇത് n സ്ക്വയർ സമയമെടുക്കും ആന്തരിക ഇമ്പ്ലിമെന്റേഷനു പകരം ഒരു സോർട്ടഡ് ലിസ്റ്റിൽ ഒരു ഹീപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് മികച്ച കാര്യം ലഭിക്കും എന്നാൽ ഉപയോക്താവ് യഥാർത്ഥ മൂല്യങ്ങൾ മാത്രാമാണ് കാണുന്നത് ഇൻസേർട്ട് ഡിലീറ്റ് മാക്സ് എന്നിവയുടെ ഒരു ശ്രേണി അതായത് ഉപയോക്താവ് സോർട്ടഡ് ലിസ്റ്റ് ഇമ്പ്ലിമെന്റേഷൻ ഹീപ്പ് ഇമ്പ്ലിമെന്റേഷൻ എന്നിവ തമ്മിൽ വ്യത്യാസം കാണുന്നില്ല ഒരുപക്ഷേ ഒരെണ്ണം മറ്റൊന്നിനേക്കാൾ വേഗതയേറിയതാണെന്ന ധാരണയുണ്ട് ഇമ്പ്ലിമെന്റേഷന്റെ യഥാർത്ഥ കൃത്യതയെ നിങ്ങൾ ഡാറ്റയെ പ്രതിനിധീകരിക്കാൻ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നത് ബാധിക്കരുത് ഒരു അബ്സ്ട്രാക്ട് ഡാറ്റാ ടൈപ്പ് നിർവചിക്കുന്നതിന്റെ സാരം ഇതാണ് അബ്സ്ട്രാക്ട് ഡാറ്റാ ടൈപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനുള്ള നല്ല മാർഗ്ഗം പരിമിതമായ ഇടപെടൽ അനുവദിക്കുന്ന ഒരു ബ്ലാക്ക് ബോക്സ് ആണ് എടിഎം മെഷീൻ പോലെ എന്തെങ്കിലും സങ്കൽപ്പിക്കുക നമുക്ക് ഡാറ്റാ സ്ട്രക്ച്ചർ ഒരു ബ്ലാക്ക് ബോക്സായി ഉണ്ട് കൂടാതെ നമുക്ക് ചില ബട്ടണുകൾ ഉണ്ട് അവ പബ്ലിക് ഇന്റർഫേസാണ് ഇവയാണ് നമുക്ക് ഉപയോഗിക്കാൻ അനുവാദമുള്ള ഫംഗ്ഷനുകൾ ഈ ചിത്രത്തിൽ ഇത് ഒരു സ്റ്റാക്ക് ആണെന്ന് സങ്കൽപ്പിക്കുക ബട്ടണുകൾ പുഷ് പോപ്പ് എന്നിവ ചെയ്യാൻ അനുവാദമുണ്ട് പോപ്പ് സ്റ്റാക്കിൽ നിന്ന് മുകളിലുള്ള ഘടകങ്ങൾ നീക്കംചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു ഒരു ഘടകം സ്റ്റാക്കിൽ ഇടാൻ പുഷ് അനുവദിച്ചിരിക്കുന്നു ഇപ്പോൾ ഇത് സ്റ്റാക്കിൽ നിന്ന് കാര്യങ്ങൾ ചേർക്കാനും കാണാനും ആവശ്യപ്പെടുന്നു അതിനാൽ ഇൻപുട്ടിനായി നമുക്ക് ഒരു സ്ലോട്ടും ഉണ്ട് അത് ചുവടെയുള്ള ഇതുപോലെ കാണിക്കുന്നു ഇവിടെ നമുക്ക് ഇൻപുട്ടിനുള്ള സ്ലോട്ട് ഉണ്ട് ഒപ്പം സ്റ്റാക്കിന്റെ അവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള മാർഗവും നമുക്ക് ഉണ്ട് അതിനാൽ നമുക്ക് ഒരു ടൈപ്പ് ഡിസ്പ്ലേ ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാനാകും സാധാരണയായി ഇത് പോലെ ഒരു ഡാറ്റാ സ്ട്രക്ച്ചറിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ബ്ലാക്ക് ബോക്സിനുള്ളിൽ എന്താണുള്ളതെന്ന് അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ബട്ടൺ കുറെ തവണ പുഷ് ചെയ്താൽ ഇൻപുട്ട് ബോക്സിലൂടെ ഇൻപുട്ട് കൊടുക്കാം ഡിസ്പ്ലേയിൽ എന്തായിരിക്കും കാണുക ഇതുകൂടാതെ മറ്റ് കാര്യങ്ങൾ ഒന്നും അനുവദിക്കരുത് ഒരു സ്റ്റാക്കിന്റെ മധ്യത്തിലോ ഒരു ക്യൂവിന്റെ മധ്യത്തിലോ എന്താണെന്നു വേഗത്തിൽ അറിയാൻ ബോക്സിനുള്ളിലേക്ക് നോക്കാൻ നമ്മെ അനുവദിച്ചിട്ടില്ല അതിനാൽ നമുക്ക് ആ പ്രവർത്തനങ്ങൾ ആവശ്യമില്ല ബാഹ്യമായി ദൃശ്യമാകുന്ന ഇന്റർഫേസ് അല്ലെങ്കിൽ ബ്ലാക്ക് ബോക്സ് ചിത്രത്തിന്റെ ഈ കേസിലെ ബട്ടണുകൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഒരു തരത്തിൽ പൈത്തണിലെ ബിൽറ്റ് ഇൻ ഡാറ്റാ ടൈപ്പ് ഉപയോഗിക്കുമ്പോൾ ഇത് ഇതിനകം തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട് l എന്നത് ലിസ്റ്റ് ടൈപ്പ് ആണ് അത് ശൂന്യമായ ലിസ്റ്റ് ആണ് അങ്ങിനെയാണെങ്കിൽ ഉടൻ പൈത്തൺ ഈ ലിസ്റ്റിൽ അപ്പെൻഡ് എക്സ്റ്റെൻഡ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കാൻ നമ്മളെ അനുവദിക്കും പക്ഷേ ഇത് ലിസ്റ്റ് ടൈപ്പ് ആണ് ഡിക്ഷണറി ടൈപ്പ് അല്ല അതിനാൽ ഡിക്ഷണറിക്കായി നിർവചിച്ചിരിക്കുന്ന കീകൾ പോലുള്ള ഒരു പ്രവർത്തനം നിർവ്വഹിക്കാൻ നമുക്ക് കഴിയില്ല അതുപോലെ തന്നെ d എന്നത് ഒരു ശൂന്യമായ ഡിക്ഷണറി ആയി നിർവചിക്കുകയാണെങ്കിൽ നിലവിൽ സംഭരിച്ചിരിക്കുന്ന മൂല്യങ്ങളുടെ പട്ടിക ലഭിക്കുന്നതിന് നമുക്ക് d ഡോട്ട് വാല്യൂസ് പോലുള്ള ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം പക്ഷേ നമുക്ക് ഒരു ലിസ്റ്റ് ആയി അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല d ഡോട്ട് അപ്പെൻഡ് എന്ന് നൽകാൻ കഴിയില്ല കാരണം ഇത് നമുക്ക് ഒരു എറർ നൽകും പൈത്തൺ വാല്യൂസിന്റെ ടൈപ്പ് വിവരങ്ങൾ ഉപയോഗിക്കുന്നു ഒരു പേരിന് അസൈൻ ചെയ്യുന്നു ഏത് ഫംഗ്ഷനുകൾ നിയമാനുസൃതമാണെന്ന് നിർണ്ണയിക്കാൻ ഈ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പുകൾ ഉപയോഗിക്കുന്നു നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കൃത്യമായി ഇതാണ് ഡാറ്റാ ടൈപ്പുകൾക്ക് നിയന്ത്രിതമായ അക്സസ്സ് മാത്രമേ ഉള്ളു ആന്തരിക ഇമ്പ്ലിമെന്റേഷനെക്കുറിച്ച് നമ്മളോട് ഒന്നും പറയാതെ തന്നെ അവയുടെ സ്വഭാവം നിർണയിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് ഒരു ഡിക്ഷനറിയിൽ നിഘണ്ടുവിൽ ഒരു പ്രത്യേക ക്രമത്തിൽ ഒരു സീക്വൻസോ മൂല്യങ്ങളോ ചേർത്താലും കുറച്ചു കഴിഞ്ഞ് നമ്മൾ മൂല്യങ്ങൾ ചോദിക്കുമ്പോൾ അവ അതേ ക്രമത്തിൽ എഴുതിയിട്ടില്ലെന്ന് നമ്മൾ കാണുന്നു കാരണം ആന്തരികമായി ഒരു മൂല്യം നോക്കുന്നത് ഇത് വേഗത്തിലാക്കാൻ ചില ഒപ്റ്റിമൈസേഷനുകൾ ഉണ്ട് അതിനായി ഡിക്ഷനറികൾ എങ്ങനെ അകത്ത് ഇമ്പ്ലിമെന്റേഷൻ നടത്തുമെന്ന് നമുക്ക് അറിയില്ല പക്ഷേ നമുക്ക് ഒന്നറിയാം ഒരു കീ നൽകുകയും ആ കീ സാധുവായ ഒരു കീ ആണെങ്കിൽ നമ്മളെ ആ കീയുമായി ബന്ധപ്പെടുത്തുന്നു ഇത് എങ്ങനെ ചെയ്തുവെന്ന് നമ്മൾ ചോദിക്കുന്നില്ല പൈത്തണിന്റെ ഒരു പതിപ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ ഇത് നടപ്പിലാക്കുന്ന രീതി മാറുന്നുണ്ടോ എന്ന് നമ്മൾ അറിയുന്നില്ല നമ്മുടെ ചോദ്യം സ്റ്റാക്കുകൾ ക്യൂകൾ ഹീപ്പ് മറ്റ് ഡാറ്റാ സ്ട്രക്ചേഴ്സ് എന്നിവയ്ക്കായി ബിൽറ്റ് ഇൻ ലിസ്റ്റ് ഉപയോഗിക്കുന്നതിനുപകരം മറ്റൊരു ഡാറ്റാ ടൈപ്പ് നിർവ്വചിക്കാൻ നമുക്ക് കഴിയുമോ അതിൽ നമ്മൾ ആരംഭിക്കുന്ന ടൈപ്പ് അനുസരിച്ച് ചില പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം എന്ന പ്രോഗ്രാമിംഗ് ശൈലിയുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളിൽ ഒന്നാണിത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിൽ പുതിയ ഡാറ്റാ ടൈപ്പുകൾക്കായി നമുക്ക് ഡാറ്റാ ടൈപ്പ് നിർവചനങ്ങൾ നൽകാൻ കഴിയും അതിൽ നമ്മൾ പറഞ്ഞത് പോലെ കൃത്യമായി നമ്മൾ പബ്ലിക് ഇന്റർഫേസിനെക്കുറിച്ച് വിവരിക്കുന്നു അതായത് ഡാറ്റയിൽ അനുവദനീയമായ പ്രവർത്തനങ്ങൾ പ്രത്യേകമായി സ്വകാര്യമായി നമ്മൾ ഒരു ഇമ്പ്ലിമെന്റേഷൻ നൽകണം പൈത്തണിൽ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും കാരണം ഇപ്പോൾ ഈ ലാംഗ്വേജിനെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായ ധാരണയില്ല എന്നാൽ ഇമ്പ്ലിമെന്റേഷൻ പുറത്ത് ദൃശ്യമാകരുത് നടപ്പിലാക്കിയ ഡാറ്റയുമായി സംവദിക്കാൻ മാത്രം ഉപയോക്താവിനെ ഇന്റർഫേസ് അനുവദിക്കണം തീർച്ചയായും ഇമ്പ്ലിമെന്റേഷൻ ഉപയോക്താവിന് ദൃശ്യമാകുന്ന പ്രവർത്തനങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്ന തരത്തിലായിരിക്കണം ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് ഒരു ഹീപ്പ് ഉണ്ടെങ്കിൽ പബ്ലിക് ഇന്റർഫേസ്എന്നത് ഇൻസേർട്ട് ഡിലീറ്റ് മാക്സ് എന്നിവ ആണ് സ്വകാര്യ ഇമ്പ്ലിമെന്റേഷൻ ഒരു സോർട്ടഡ് ലിസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അത് ഒരു ഹീപ്പ് ആയിരിക്കാം നമ്മൾ ഒരു സോർട്ടഡ് ലിസ്റ്റ് ഉപയോഗിക്കുന്നുവെങ്കിൽ അത് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് ഡിലീറ്റ് മാക്സ് നടപ്പിലാക്കുകയും ശരിയായരീതിയിൽ ഇൻസേർട്ട് നടപ്പിലാക്കുകയും ചെയ്യുക നമ്മൾ അതിൽ നിന്ന് ഒരു ഹീപ്പിലേക്ക് മാറുകയാണെങ്കിൽ പ്രയോറിറ്റി ക്യൂ പ്രവർത്തനങ്ങൾ അതേപടി തുടരും ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ പദാവലിയിൽ രണ്ട് പ്രധാന ആശയങ്ങൾ ഉണ്ട് ക്ലാസുകളും ഒബ്ജക്ട്സും ഒരു ക്ലാസ് ഒരു ടെംപ്ലേറ്റാണ് ഒരു ഫംഗ്ഷൻ നിർവചനം പോലെ ഒരു ടെംപ്ലേറ്റ് ആണ് നമ്മൾ def ഉപയോഗിച്ച് ഒരു ഫംഗ്ഷൻ നിർവചിക്കുമ്പോൾ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല ഇത് നമുക്ക് ഒരു ബ്ലൂ പ്രിന്റ് നൽകുന്നു അതായത് ഈ ഫംഗ്ഷനെ പ്രത്യേക ആർഗ്യുമെന്റ് നൽകി വിളിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന ധാരണ നൽകുന്നു ഫംഗ്ഷനിലെ ഒരുപചാരിക പാരാമീറ്ററിന് പകരമായി ആ ആർഗ്യുമെന്റ് നൽകി ആ ഫംഗ്ഷനിലെ കോഡ് അനുബന്ധ മൂല്യമനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യും അതുപോലെ തന്നെ ഒരു ക്ലാസ് ഒരു ബ്ലൂ പ്രിന്റ് നൽകുന്നു അല്ലെങ്കിൽ ഡാറ്റാ ടൈപ്പിനായി ഒരു ടെംപ്ലേറ്റ് സജ്ജമാക്കുന്നു അത് നമ്മോട് രണ്ട് കാര്യങ്ങൾ പറയുന്നു എന്താണ് ആന്തരിക ഇമ്പ്ലിമെന്റേഷൻ ഡാറ്റ എങ്ങനെയാണ് സംഭരിക്കുന്നത് യഥാർത്ഥ പബ്ലിക് ഇന്റർഫേസ് നടപ്പിലാക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനുകൾ ഇത് നൽകുന്നു പബ്ലിക് ഇന്റർഫേസ്അനുവദിക്കുന്ന പ്രവർത്തനങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് നിങ്ങൾ ആന്തരിക ഡാറ്റ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഇപ്പോൾ ഈ ടെംപ്ലേറ്റ് ലഭിച്ചുകഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നിർമ്മിക്കാൻ കഴിയും നിങ്ങൾക്ക് സ്റ്റാക്കിന്റെ ബ്ലു പ്രിന്റ് ഉണ്ട് നിരവധി സ്വതന്ത്ര സ്റ്റാക്കുകൾ നിർമ്മിക്കാൻ കഴിയും ഓരോ സ്വതന്ത്ര സ്റ്റാക്കിനും സ്വന്തം ഡാറ്റയുണ്ട് സ്റ്റാക്കുകൾ പരസ്പരം ഇടപെടാറില്ല അവയിൽ ഓരോന്നിനും നമ്മൾ നിർവ്വചിച്ച ഫംഗ്ഷന്റെ ഒരു പകർപ്പ് ഉണ്ട് ക്ലാസിക്കൽ പ്രോഗ്രാമിംഗിൽ നിന്നുള്ള പ്രധാന വ്യത്യാസമിതാണ് ക്ലാസിക്കൽ പ്രോഗ്രാമിംഗിൽ നിങ്ങൾക്ക് ഉദാഹരണത്തിന് പുഷ് ഡിഫൈൻ എന്നതുപോലുള്ള ഒരു ഫങ്ഷൻ ഉണ്ടായിരിക്കും ഇതിന് രണ്ട് പാരാമീറ്ററുകൾ ഉണ്ട് സാധാരണയായി ഒരു സ്റ്റാക്കും ഒരു മൂല്യവും ഉണ്ടാകും നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട് തുടർന്ന് നിങ്ങൾ അത് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റാക്ക് നൽകുന്നു മറുവശത്ത് ഇപ്പോൾ നമുക്ക് നിരവധി സ്റ്റാക്കുകൾ എസ് 1 എസ് 2 എസ് 3 തുടങ്ങിയവ ക്ലാസായി സൃഷ്ടിക്കപ്പെടുന്നു യുക്തിപരമായി അവയിൽ ഓരോന്നിനും സ്വന്തം പുഷ് ഫംഗ്ഷനുണ്ട് എസ് 1 മായി ബന്ധപ്പെട്ട ഒരു പുഷ് ഉണ്ട് എസ് 2 ആയി ബന്ധപ്പെട്ട പുഷ് എസ് 3 യുമായി ബന്ധപ്പെട്ട പുഷ് തുടങ്ങിയവ അവ ഓരോന്നും ഈ ടെംപ്ലേറ്റിൽ നിന്നും ഉരുത്തിരിഞ്ഞ അതേ ഫംഗ്ഷന്റെ ഒരു പകർപ്പാണ് പക്ഷേ ഇത് ഒരൊറ്റ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വീക്ഷണകോണിലുള്ള ഒരു ചെറിയ വ്യത്യാസം മാത്രമാണ് ഇത് ഒബ്ജക്റ്റ് കൈമാറുന്ന ഒരു ഫംഗ്ഷനുപകരം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നത് ഒബ്ജെക്ടിനെ ആണ് ആ ഒബ്ജെക്ടിനോട് ഏത് ഫംഗ്ഷനാണ് സ്വയം പ്രയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ പറയുന്നു ഇത് ഒരു വിശദമായ ഉദാഹരണമായിരിക്കില്ല എങ്കിലും പറയാം ഇത് നമ്മൾ സംസാരിക്കുന്നതിന്റെ ഒരു ധാരണ നൽകും ക്ലാസ് ഹീപ്പിന്റെ നിർവചനത്തിന്റെ ഒരു രൂപം ഇതാണ് ഇപ്പോൾ ബിൽറ്റ് ഇൻ ലിസ്റ്റ് ഉപയോഗിക്കുന്നതിനുപകരം നമ്മുടെ സ്വന്തം ഡാറ്റാ ടൈപ്പ് ഹീപ്പ് നിർവചിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ചില ഫംഗ്ഷൻ നിർവചനങ്ങൾ ഉണ്ട് ഈ def സ്റ്റേറ്റ്മെന്റുകൾ എന്നാൽ ഫംഗ്ഷനുകളിലെ നിർവചനമാണ് ഈ നിർവചനങ്ങൾക്കുള്ളിൽ നമുക്ക് ഹീപ്പിന്റെ ഓരോ പകർപ്പിലും സംഭരിച്ചിരിക്കുന്ന മൂല്യങ്ങൾ ഉണ്ടാകും ഇത് എങ്ങനെ പ്രവർത്തിക്കും എന്നതിനെക്കുറിച്ച് ഒരു ധാരണ നേടുന്നതിന് ഇത് സഹായിക്കും ടൈപ്പ് ഹീപ്പ് ആയ ഒബ്ജക്റ്റ് നമ്മൾ സൃഷ്ടിക്കുമ്പോൾ അതിനെ ഒരു ഫംഗ്ഷൻ പോലെ വിളിക്കുന്നു ഇപ്പോൾ hഈക്വൽ റ്റു ഹീപ്പ് l ഇത് ക്ലാസ് ഹീപ്പിന്റെ ഒരു ഉദാഹരണം തരൂ എന്ന് പറയുന്നു തുടക്കത്തിൽ ഈ മൂല്യം l അതിലേക്ക് കൈമാറി ഇപ്പോൾ ഇത് ഈ init ഫംഗ്ഷനെ വിളിക്കുന്നു എന്താണ് ഇതിനെ init എന്ന് വിളിക്കുന്നത് init നെ ഒരു കൺസ്ട്രക്റ്റർ എന്ന് വിളിക്കുന്നു ഒബ്ജക്റ്റ് സൃഷ്ടിക്കുമ്പോൾ വിളിക്കപ്പെടുന്ന ഒരു ഫംഗ്ഷനാണ് കൺസ്ട്രക്റ്റർ ഈ പ്രത്യേക സാഹചര്യത്തിൽ തുടക്കത്തിൽ ഇത് സജ്ജമാക്കുമ്പോൾ നമ്മുടെ കൺസ്ട്രക്റ്റർ 14 32 15 എന്നീ മൂല്യങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്ത് അതിനെ ഹീപ്പിഫൈ ചെയ്യുമെന്ന് അനുമാനിക്കുന്നു Init എന്ന കോഡിന്റെ ഉള്ളിൽ എവിടെയോ അവിടെ യഥാർത്ഥത്തിൽ ഒരു ഹീപ്പിഫികേഷൻ പ്രവർത്തനം ഉണ്ട് ഈ സ്ലൈഡ് അത് കാണിക്കുന്നില്ല ഇങ്ങനെയാണ് നിങ്ങൾ ഒബ്ജക്റ്റുകൾ സൃഷ്ടിക്കുന്നത് നിങ്ങൾ ആദ്യം ഒരു ക്ലാസ് നിർവചിക്കുന്നു നമുക്ക് ഉടൻ തന്നെ ഒരു പൂർണ്ണ ഉദാഹരണം നോക്കാം നമ്മൾ ഒരു ക്ലാസ് നിർവചിക്കുന്നു തുടർന്ന് നിങ്ങൾ ക്ലാസ് ഫംഗ്ഷനെ ഒരു ഫംഗ്ഷൻ പോലെയാണ് വിളിക്കുന്നത് കൂടാതെ ഈ ഫംഗ്ഷൻ കോളിലേക്ക് അറ്റാച്ചുചെയ്തിരിക്കുന്ന പേര് അല്ലെങ്കിൽ ഈ ക്ലാസ് ഒരു പുതിയ ഒബ്ജക്റ്റായി മാറുന്നു ഹീപ്പിലെ ഫങ്ഷൻസ് ഇൻസേർട്ട് ഡിലീറ്റ് മാക്സ് തുടങ്ങിയവ നമ്മുടെ പക്കലുണ്ടെന്ന് പറഞ്ഞു എന്നാൽ ഓരോ ഹീപ്പിനും ഈ ഫംഗ്ഷന്റെ എല്ലാം പ്രത്യേക പകർപ്പ് നമ്മുടെ പക്കലുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ ഒരു ഹീപ്പ് h സൃഷ്ടിച്ചിരിക്കുന്നു നമ്മൾ h നോട് 17 എന്ന മൂല്യം ഉൾപ്പെടുത്താൻ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മൾ എഴുതുന്നു ഇൻസേർട്ട് വിത്ത് റെസ്പെക്ട് റ്റു h h ഡോട്ട് ഇൻസേർട്ട് 17 ഇത് ഫങ്ഷൻ എഴുതുന്ന സാധാരണ ശൈലി ഇൻസേർട്ട് h 17എന്നാണ് നമ്മൾ സാധാരണയായി ഹീപ്പും ഈ മൂല്യവും കൈമാറും പകരം ഇവിടെ നമ്മൾ പറയുന്നത് ഗിവൺ ഹീപ്പ് h അപ്ലൈ റ്റു ഹീപ്പ് h ഇൻസേർട്ട് ഫങ്ഷൻ വിത്ത് ആർഗ്യുമെന്റ് 17 അടുത്ത വരി പറയുന്നു അപ്ലൈ റ്റു ദി ഹീപ്പ് h ഇൻ ഫംഗ്ഷൻ ഇൻസേർട്ട് റ്റു വാല്യൂ 28 ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ പരമാവധി മൂല്യം മടക്കിനൽകാൻ hനോട് ആവശ്യപ്പെടാം അത് ഒരു h ഡോട്ട് ഡിലീറ്റ് മാക്സ് സ്റ്റോർ റിട്ടേൺ വാല്യൂ ഇൻ മെയിൻ v നമ്മൾ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് ഒരു ബ്ലാക്ക് ബോക്സായി കാണണം ഒരു ബ്ലാക്ക് ബോക്സിന് ഒരു പബ്ലിക് ഇന്റർഫേസ്ഉള്ളതുപോലെ കാര്യങ്ങൾ ചേർക്കാനും കാര്യങ്ങൾ ഇല്ലാതാക്കാനും ഡാറ്റാ ടൈപ്പ് ശൂന്യമാണോയെന്ന് കണ്ടെത്താനും ഡാറ്റ ടൈപ്പ് അപ്ഡേറ്റുചെയ്യാനും അന്വേഷിക്കാനും ഉപയോഗിക്കാവുന്ന ബട്ടണുകൾ ഉണ്ടാകാം ഉള്ളിൽ നമുക്ക് ഒരു സ്വകാര്യ ഇമ്പ്ലിമെന്റേഷൻ ഉണ്ട് പബ്ലിക് ഫംഗ്ഷനുകൾ ശരിയായി പ്രവർത്തിക്കുന്നതിന് ചില പ്രത്യേക രീതിയിൽ ഡാറ്റ സംഭരിക്കുന്നു എന്നാൽ പ്രധാന കാര്യം സ്വകാര്യ ഇമ്പ്ലിമെന്റേഷൻ മാറ്റുന്നത് ഇൻപുട്ടിന്റെയും ഔട്ട്പുട്ടിന്റെയും കാര്യത്തിൽ ഫങ്ഷൻസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ ബാധിക്കരുത് കാര്യക്ഷമതയുടെ കാര്യത്തിൽ അവർ വ്യത്യസ്തമായി പെരുമാറിയേക്കാം ഒരു പതിപ്പ് മറ്റൊന്നിനേക്കാൾ വേഗതയുള്ളതാണെന്നും അല്ലെങ്കിൽ ഒരു പതിപ്പ് മറ്റൊന്നിനേക്കാൾ വേഗത കുറഞ്ഞതാണെന്നും നിങ്ങൾ കണ്ടേക്കാം എന്നാൽ ഇത് ഫംഗ്ഷനുകൾ മാറുന്നുവെന്ന് പറയുന്നതിന് തുല്യമല്ല നമുക്ക് പ്രയോറിറ്റി ക്യൂ ഉണ്ടെങ്കിൽ മൂല്യങ്ങൾ മാറ്റാൻ നമ്മൾ താൽപ്പര്യപ്പെടുന്നില്ല നമ്മൾ ഒരു കൂട്ടം മൂല്യങ്ങൾ ചേർക്കുകയും തുടർന്ന് ഡിലീറ്റ് മാക്സ് ചെയ്യുമ്പോൾ പ്രയോറിറ്റി ക്യൂ അത് എങ്ങനെ ആന്തരികമായി നടപ്പിലാക്കിയാലും അവസാനം നമുക്ക് അതേ മൂല്യം നൽകണം പൈത്തൺ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിനെ പിന്തുണയ്ക്കുന്നുവെന്ന് നമ്മൾ കണ്ടു ഈ ആഴ്ചത്തെ കോഴ്സിലെ അടുത്ത രണ്ട് പ്രഭാഷണങ്ങളിൽ നമ്മൾ ഇത് കൂടുതൽ വിശദമായി പരിശോധിക്കും എന്നാൽ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗുമായി ബന്ധപ്പെട്ട പ്രധാന ആശയം ക്ലാസുകളും ഒബ്ജക്റ്റുകളും ആണ് ക്ലാസുകൾ ഡാറ്റാ ടൈപ്പുകൾക്കുള്ള ടെംപ്ലേറ്റുകളാണ് കൂടാതെ ഒബ്ജക്റ്റുകൾ ഈ ക്ലാസുകളുടെ ഉദാഹരണങ്ങളാണ് അവക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഒരു ശക്തമായ ഡാറ്റ ടൈപ്പുകളുണ്ട്